അതിനാൽ ഈ പ്രഭാഷണത്തിൽ നമ്മൾ ഫ്ലോർ പ്ലാനിംഗിനുള്ള ചില അൽഗോരിതങ്ങളെക്കുറിച്ച് സംസാരിക്കും അതിനാൽ ഫ്ലോർ പ്ലാനിംഗ് അൽഗോരിതങ്ങൾ അതിനാൽ അവയിൽ ചിലത് നമ്മൾ കാണുന്നത് പോലെ ഇന്റിജർ ലീനിയർ പ്രോഗ്രാമിംഗ് അടിസ്ഥാനമാക്കിയുള്ളതാണ് അൽഗോരിതങ്ങളുടെ നിരവധി വിശാലമായ ക്ലാസുകൾ നമ്മൾ ഹ്രസ്വമായി നോക്കുന്നു അവയിൽ ചിലത് റെക്ടൻഗുലാർ ഡ്യൂവൽ ഗ്രാഫ് പിന്നെ ഹൈറാർക്കിക്കൽ ട്രീ പോലുള്ള ചില പ്രത്യേക ഡാറ്റാ സ്ട്രക്ച്ചർ അടിസ്ഥാനമാക്കിയുള്ളതാണ് സിമുലേറ്റഡ് അനിയലിംഗ് വളരെ നല്ലതാണ് നിങ്ങൾക്ക് വളരെ നല്ല ഫലങ്ങൾ നൽകുന്ന പൊതുവായ രീതി പറയാം മറ്റ് ചില വ്യതിയാനങ്ങളും ഉണ്ട് അതിനാൽ ഇന്റിജർ ലീനിയർ പ്രോഗ്രാമിംഗ് നമ്മൾ കൂടുതൽ വിശദമായി പോകില്ല അടിസ്ഥാന ആശയം നമ്മൾ പ്രശ്നത്തെ ഒരു ലീനിയർ സമവാക്യങ്ങളായി മാതൃകയാക്കുന്നു മാത്രമല്ല ചില കോസ്ററ് ഫങ്ക്ഷനും ഒപ്റ്റിമൈസ് ചെയ്യുന്ന ചില വസ്തുനിഷ്ഠമായ പ്രവർത്തനങ്ങളും നമ്മൾ വ്യക്തമാക്കുന്നു നമ്മൾ അത് ഒരു ഐഎൽപി സോൾവറിന് നൽകുന്നു ഐഎൽപി സോൾവർ നമുക്ക് മികച്ച പരിഹാരം നൽകും കാരണം ഐഎൽപി സോൾവർ ഏത് പരിഹാരം നൽകിയാലും അത് ഏറ്റവും മികച്ച പരിഹാരത്തിന് ഏറ്റവും മികച്ചതാണ് അതിനാൽ പരിഹാരത്തിന്റെ ഒപ്റ്റിമലിറ്റി ഉറപ്പുനൽകുന്നു പക്ഷേ എന്നിരുന്നാലും കംപ്യുറ്റേഷനൽ കോംപ്ലക്സിറ്റി ഉയർന്നതാണ് അതിനാൽ ഇത് വളരെ ചെറിയ പ്രശ്ന സന്ദർഭങ്ങളിൽ മാത്രമേ ഉപയോഗിക്കാൻ കഴിയൂ അതിനാൽ പ്രായോഗിക പ്രശ്നങ്ങൾക്ക് നിങ്ങൾക്ക് ഇത് ശരിക്കും ഉപയോഗിക്കാൻ കഴിയില്ല റെക്ടാങ്കുലർ ഡ്യുവൽ ഗ്രാഫ് സമീപനം ഇത് വളരെ രസകരമായ സമീപനമാണ് പാർട്ടീഷനിംഗിനൊപ്പം ഫ്ലോർ പ്ലാനിംഗിന്റെ ലിങ്കേജ് നമ്മൾ ഇവിടെ പ്രയോജനപ്പെടുത്തുന്നത് കാണാം സാധാരണയായി പാർട്ടീഷനിംഗ് നടത്തുമ്പോൾ വിഭജന പ്രക്രിയയുടെ ഔട്ട്പുട്ട് ഗ്രാഫ് പ്രതിനിധീകരിക്കുന്നു ഗ്രാഫ് അതിന്റെ ചതുരാകൃതിയിലുള്ള ഡ്യുവലാക്കി മാറ്റുന്നതിലൂടെയാണ് ഫ്ലോർ പ്ലാൻ ലഭിക്കുന്നത് ഇനി നമുക്ക് റെക്ടാങ്കുലർ ഡ്യൂവൽ എന്നതിന്റെ അർത്ഥം എന്താണെന്ന് ആദ്യം നോക്കാം നമുക്ക് ഒരു ഉദാഹരണം എടുക്കാം നമുക്ക് മറുവശത്ത് നിന്ന് ആരംഭിക്കാം നമുക്ക് ഫ്ലോർ പ്ലാൻ ഉപയോഗിച്ച് തുടങ്ങാം എനിക്ക് ഇതുപോലുള്ള ഫ്ലോർ പ്ലാൻ ഉണ്ടെന്ന് കരുതുക ഇവയാണ് വ്യത്യസ്ത ബ്ലോക്കുകൾ A B C D E അതിനാൽ റെക്ടാങ്കുലർ ഡ്യൂവലിറ്റിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ ഡയഗ്രാമിൽ അല്ലെങ്കിൽ ഈ ചിത്രത്തിൽ എപ്പോഴെങ്കിലും റെക്ടാങ്കുലർ റീജിയൻ ഒരു വെർടെക്സുമായി പൊരുത്തപ്പെടുമെന്നതാണ് ആശയം അതിനാൽ ഞാൻ ഇതുപോലെ കാണിച്ചതിൽ 5 വെർടെക്സ് ഉണ്ടാകും പൊതുവായ അതിരുകളുള്ള ഓരോ ജോടി ബ്ലോക്കുകളും നിങ്ങൾ കാണുന്നത് പോലെ A B എന്നിവയ്ക്ക് ഒരു കോമൺ ബൌണ്ടറി ഉണ്ട് അതിനാൽ ഈ രണ്ട് വെർടിസിസിന്റെയും ബന്ധിപ്പിക്കുന്ന ഒരു അരികുണ്ടാകും A C എന്നിവയ്ക്ക് ഒരു കോമൺ ബൌണ്ടറി ഉണ്ട് അതിനാൽ ഇതിനെ ബന്ധിപ്പിക്കുന്ന ഒരു അഗ്രം ഉണ്ടാകും B യും D യും ഒരു കോമൺ ബൌണ്ടറി പങ്കിടുന്നു D യും C യും ഒരു അതിർത്തി പങ്കിടുന്നു D യും E യും പങ്കിടുന്നു കൂടാതെ C യും E യും പങ്കിടുന്നു B യും C യും പങ്കിടുന്നു എന്നാൽ ഇവിടെ അതിനാൽ നമ്മൾ ഈ ഗ്രാഫ് ഫ്ലോർ പ്ലാനിൽ നിന്ന് വരച്ചു എന്നാൽ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് മറിച്ചാണ് ഈ ഗ്രാഫ് നിങ്ങൾക്ക് നൽകും അത് നമ്മൾ ഇപ്പോൾ പറഞ്ഞ പാർട്ടീഷനിങ് പ്രോബ്ളത്തിന്റെ ഔട്ട്പുട്ട് ആയിരിക്കും അതിനാൽ ഗ്രാഫ് ഇതുപോലെയായിരിക്കും ഈ ഗ്രാഫിൽ നിന്ന് നിങ്ങൾ അത് ഒരു ഫ്ലോർ പ്ലാനിലേക്ക് വിവർത്തനം ചെയ്യേണ്ടതുണ്ട് ഇപ്പോൾ ഇതുപോലുള്ള ഒരു പ്ലാനർ ഗ്രാഫ് നൽകുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല നിങ്ങൾക്ക് ഒരു റെക്ടാങ്കുലർ റീജിയൻ ഉപയോഗിച്ച് ഒരു റെക്ടാങ്കുലർ ഡ്യുവൽ ഉപയോഗിച്ച് ഇത് പരിവർത്തനം ചെയ്യാൻ കഴിയും ഇതുപോലുള്ള ഫ്ലോർ പ്ലാൻ നിങ്ങൾക്ക് ലഭിക്കും ഇപ്പോൾ ഇത് നിങ്ങളാണ് ഓരോ ശീർഷകവും ബ്ലോക്കുകളും അരികുകൾ അവ തമ്മിലുള്ള കണക്ഷന്റെ എണ്ണവും സൂചിപ്പിക്കുന്ന പാർട്ടീഷനിംഗ് പ്രോബ്ളത്തിന്റെ ഔട്ട്പുട്ട് അരികുകളുടെ ഭാരം അവ എത്ര ശക്തമായി ബന്ധിപ്പിച്ചിരിക്കുന്നു ഇതാണ് റെക്ടാങ്കുലർ ഡ്യുവലിറ്റിയുടെ പിന്നിലെ ആശയം അതിനാൽ ഗ്രാഫിന്റെ റെക്ടാങ്കുലർ ഡ്യുവൽ ഗുണങ്ങൾ തൃപ്തിപ്പെടുത്തുന്നതായി നിങ്ങൾ കണ്ടതുപോലെ ഗ്രാഫിലെ ഓരോ വെർടെക്സും ഫ്ലോർ പ്ലാനിലെ ഒരു പ്രത്യേക റെക്ടാങ്കുലർ ആയി പൊരുത്തപ്പെടും കൂടാതെ ഓരോ അരികിലും അവയുമായി ബന്ധപ്പെട്ട റെക്ടാങ്കിൾസ് അവർ ചില ഹൊറിസോണ്ടൽ അല്ലെങ്കിൽ വെർട്ടിക്കൽ വിഭാഗങ്ങൾ പങ്കിടും ഇപ്പോൾ ഇത് നിങ്ങൾക്ക് കാണിച്ചിരിക്കുന്ന മറ്റൊരു ഉദാഹരണമാണ് ഇത് ഒരു ഫ്ലോർ പ്ലാനും ഇതാണ് റെക്ടാങ്കുലർ ഡ്യുവൽ ഗ്രാഫ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഒരു പ്രോപ്പർട്ടി ഇത് നിങ്ങൾക്ക് സ്വയം മറ്റ് ഉദാഹരണങ്ങൾ ഉപയോഗിച്ച് പ്രവർത്തിക്കാൻ കഴിയും അതുപോലെ ഏതെങ്കിലും പ്ലാനർ ഫ്ലോർ പ്ലാൻ റെക്ടാങ്കുലർ ഫ്ലോർ പ്ലാൻ നിങ്ങൾ അതിനെ ഡ്യുവൽ ഗ്രാഫിലേക്ക് പരിവർത്തനം ചെയ്യുന്നു ഡ്യുവൽ ഗ്രാഫിൽ ഒരു കൂട്ടം ത്രികോണ മേഖലകൾ അടങ്ങിയിരിക്കുന്നതായി നിങ്ങൾ കാണും ഇതിനെ പ്ലാനർ ട്രൈഅംഗുലർ ഗ്രാഫ് എന്ന് വിളിക്കുന്നു പ്ലാനാർ എന്നാൽ പരസ്പരം അരികുകൾ കടക്കാതെ ഒരു പ്ലെയിനിൽ സ്ഥാപിക്കാൻ കഴിയും അതിനാൽ പ്ലാനർ എന്നാൽ നിങ്ങൾക്ക് ഗ്രാഫ് ഒരു പ്ലെയിൻ സർഫേസിൽ ക്രമീകരിക്കാൻ കഴിയും അരികുകൾ പരസ്പരം കടക്കുകയില്ല ഫ്ലോർ പ്ലാൻ പ്ലാനർ ആയതിനാൽ നിങ്ങൾ അതിൽ ഉൾച്ചേർക്കുന്ന ഗ്രാഫും ഒരു പ്ലാനർ ഗ്രാഫായിരിക്കും അതിനാൽ ഇത് യാന്ത്രികമാണ് എല്ലാ മുഖങ്ങളും ത്രികോണാകൃതിയിലുള്ളതായിരിക്കും ഇതാണ് പ്രോപ്പർട്ടി അതിനാൽ ഈ ഗ്രാഫ് ഒരു പ്ലാനർ ട്രൈഅംഗുലർ ഗ്രാഫ് ആയിരിക്കും അത് നിങ്ങൾ ഒരു ഫ്ലോർ പ്ലാനിലേക്ക് വിവർത്തനം ചെയ്യേണ്ടതുണ്ട് ഇപ്പോൾ ചില കാര്യങ്ങൾ ഉണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ക്രോസ് ജംഗ്ഷനോടുകൂടിയ ഒരു ഫ്ലോർ പ്ലാൻ ഉണ്ടെങ്കിൽ ഇത് ഒരു പ്ലാനർ ട്രൈഅംഗുലർ ഗ്രാഫുമായി പൊരുത്തപ്പെടുന്നില്ല കാരണം 1 ഉം 2 ഉം അടുത്താണ് 1 ഉം 4 ഉം അടുത്താണ് 2 3 3 4 അതിനാൽ ഇത് ഇതുപോലെ കാണപ്പെടും എന്നാൽ 1 3 ഉം 2 4 ഉം അവർ ഹൊറിസോണ്ടലും വെർട്ടിക്കലും വരികൾ പങ്കിടുന്നില്ല അതിനാൽ നമുക്ക് ഇതുപോലുള്ള ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു PTG ലഭിക്കില്ല എന്നാൽ നിങ്ങൾക്ക് ഇതുപോലുള്ള ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഈ എഡ്ജ് 3 4 ചെറുതായി മാറ്റിയാൽ നിങ്ങൾക്ക് എന്തുചെയ്യാനാകും നിങ്ങൾ ഇത് ചെറുതായി മാറ്റുകയാണെങ്കിൽ 2 നും 4 നും ഇടയിൽ ഒരു ഷെയറിങ് ഉണ്ടാകും 2 നും 4 നും ഇടയിൽ ഒരു എഡ്ജ് ഉണ്ടാകും ശരിയായി വരുന്നു നിങ്ങൾക്ക് ഒരു PTG എന്ന പ്രോപ്പർട്ടി ഉണ്ടായിരിക്കേണ്ട ഒരു വസ്തുവാണ് PTG നിങ്ങൾക്ക് ഇത് ഈ ഗ്രാഫിലേക്ക് വിവർത്തനം ചെയ്യാൻ കഴിയും ഇപ്പോൾ ഒരു പ്രശ്നമുണ്ട് എന്നിരുന്നാലും ഓരോ പ്ലാനർ ട്രൈഅംഗുലർ ഗ്രാഫും ഒരു ഫ്ലോർ പ്ലാനിലേക്ക് വിവർത്തനം ചെയ്യാൻ കഴിയില്ല ഇത് ഒരേയൊരു പ്രശ്നമാണ് ഇതിനെ കോംപ്ലക്സ് ട്രൈആംഗിൾ എന്ന് വിളിക്കുന്നു ഇത് യഥാർത്ഥത്തിൽ ഇതുപോലെ വരച്ച 4 ശീർഷങ്ങളുടെ പൂർണ്ണ ഗ്രാഫ് സൂചിപ്പിക്കുന്നു 3 ത്രികോണാകൃതിയിലുള്ള മുഖങ്ങളുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഇത് പരീക്ഷിക്കാൻ കഴിയും ഏതെങ്കിലും വിധത്തിൽ നിങ്ങൾക്ക് ഒരു ഫ്ലോർ പ്ലാൻ വരയ്ക്കാനാകില്ല അതിനനുസൃതമായ ഡ്യുവൽ ഗ്രാഫ് ഇതായിരിക്കും അതിനാൽ ഈ പ്രത്യേക സമീപനത്തിൽ നിങ്ങൾ ഒരു ഗ്രാഫിൽ നേരിടുമ്പോഴെല്ലാം ഈ കോംപ്ലക്സ് ട്രൈആംഗിൾ ഒരു ബുദ്ധിമുട്ടുള്ള പ്രശ്നമാണ് അതിനാൽ ഞാൻ ആദ്യം നിങ്ങളോട് പറയട്ടെ അതിനാൽ ഇവിടെ നിങ്ങൾ പറയുന്നത് നമ്മുടെ പാർട്ടീഷനിംഗ് അൽഗോരിതങ്ങൾ നൽകുന്ന ഗ്രാഫിൽ നിന്നാണ് നമ്മൾ ആരംഭിക്കുന്നത് ചില ബ്ലോക്കുകളും അവയുടെ കണക്ഷനുകളുടെ ശക്തിയെ സൂചിപ്പിക്കുന്ന അവയുടെ പരസ്പരബന്ധങ്ങളും ഇപ്പോൾ ആ ഗ്രാഫിൽ നമുക്ക് പ്ലാനർ ത്രികോണങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഒരു ലേ ഔട്ടിലേക്കോ ഫ്ലോർ പ്ലാനിലേക്കോ മാപ്പ് ചെയ്യാം അതിനാൽ ഇത് നിങ്ങൾക്ക് എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കും എന്നാൽ നിങ്ങൾക്ക് അവിടെ ഒരു കോംപ്ലക്സ് ട്രൈആംഗിൾ ഉണ്ടെങ്കിൽ ആ സബ്ഗ്രാഫ് ഒരു റെക്ടാങ്കുലർ ഡ്യുവലിലേക്ക് ഒരു ഫ്ലോർ പ്ലാനിലേക്ക് മാപ്പ് ചെയ്യാൻ കഴിയില്ല അതിനാൽ ഇത് ഒരു പോരായ്മയാണ് ഒരു പാർട്ടീഷനെ പ്രതിനിധീകരിക്കുന്ന ഒരു ഗ്രാഫ് ഉപയോഗിച്ച് ആരംഭിക്കുന്ന ഫ്ലോർ പ്ലാനിംഗിന് രസകരമായ ഒരു സമീപനമുണ്ട് അവിടെ നിന്ന് നമ്മൾ അത് ഒരു ഫ്ലോർ പ്ലാനിലേക്ക് വിവർത്തനം ചെയ്യുന്നു എന്നാൽ പ്രധാന പ്രശ്നം കോംപ്ലക്സ് ട്രൈആംഗിളിന്റെ പ്രശ്നമാണ് അതിനാൽ നമ്മൾ ചെയ്യുന്നത് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള ഒരു സാധ്യമായ ഹ്യൂറിസ്റ്റിക് ഇതുപോലെയാണ് നിങ്ങൾ പൂർണ്ണമായ പാർട്ടീഷനിങ് ഗ്രാഫ് പരിഗണിക്കുന്നു അവിടെ നിലവിലുള്ള എല്ലാ കോംപ്ലക്സ് ട്രൈആംഗിളും നിങ്ങൾ തിരിച്ചറിയുന്നു ഓരോ കോംപ്ലക്സ് ട്രൈആംഗിളിൽ നിന്നും ഓരോ അരികിലും നിങ്ങൾ തിരഞ്ഞെടുക്കുന്നു നിങ്ങൾ ഒരു എഡ്ജ് ചേർക്കുക അതായത് ഇത് ഇതുപോലെയാണ് നിങ്ങളുടെ കോംപ്ലക്സ് ട്രൈആംഗിൾ ഇങ്ങനെയാണെന്ന് പറയട്ടെ അതിനാൽ നമ്മൾ പറയുന്നത് ഏതൊരു അരികിലും നിങ്ങൾ ഒരു ശീർഷകം ചേർക്കുന്നു നമ്മൾ ഇവിടെ ഒരു ഡമ്മി എഡ്ജ് ചേർക്കുന്നു എന്നതാണ് അതിനാൽ ഇത് ഇനി ഒരു കോംപ്ലക്സ് ട്രൈആംഗിൾ അല്ല അതിനാൽ ഞാൻ ഇതുപോലുള്ള ഡമ്മി വെർട്ടീസുകൾ ചേർത്താൽ കോംപ്ലക്സ് ട്രൈആംഗിൾ പ്രശ്നം നിങ്ങൾ പരിഹരിച്ചു അതിനാൽ പ്രശ്ന പരിഹാരം നിർദ്ദേശിക്കുന്നത് നിങ്ങൾ അത്തരം ഡമ്മി വെർട്ടീസുകൾ ചേർക്കുന്നു എന്നാൽ വീണ്ടും ഇത്തരത്തിലുള്ള അരികുകളുടെ ഭാരം നിർണ്ണയിക്കുന്നത് അത് എല്ലാ കോംപ്ലക്സ് ട്രൈആംഗിളെയും ഇല്ലാതാക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു പ്രശ്നമാണെന്ന് തെളിഞ്ഞിട്ടുണ്ട് എന്നാൽ ചില ഹ്യൂറിസ്റ്റിക്സ് ലഭ്യമാണ് ഞാൻ ഉദ്ദേശിക്കുന്ന ചില ഉപകരണങ്ങൾ യഥാർത്ഥത്തിൽ ഒരു ഫ്ലോർ പ്ലാൻ സൃഷ്ടിക്കാൻ ഇത്തരത്തിലുള്ള ഹ്യൂറിസ്റ്റിക്സ് ഉപയോഗിച്ചിട്ടുണ്ട് ഈ ഹൈറാർക്കിക്കൽ അപ്പ്രോച്ച് ഒരു രസകരമായ സമീപനമാണ് അത് വളരെ സാധാരണയായി ഉപയോഗിക്കുന്നു അതിനാൽ ഇവിടെ നമ്മൾ പറയുന്നത് നമ്മൾ ഒരുതരം ഡിവൈഡ് ആൻഡ് കോൺക്യുർ സമീപനമാണ് ഉപയോഗിക്കുന്നത് അതിനർത്ഥം നമ്മൾ പ്രശ്നത്തെ ചെറിയ ഉപപ്രശ്നങ്ങളായി വിഭജിക്കുന്നു അവ 3 ശീർഷങ്ങളുള്ള ഒരു ചെറിയ ഗ്രാഫ് പരിഗണിക്കുന്നതുപോലെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ കഴിയും അതായത് 3 ബ്ലോക്കുകൾ അതിനാൽ ഈ 3 ബ്ലോക്കുകൾ സാധ്യമായ 3 വഴികളിൽ സ്ഥാപിക്കാവുന്നതാണ് അതിനാൽ നമ്മൾ പറയുന്നത് നമുക്ക് ഒരു ചെറിയ കൂട്ടം ബ്ലോക്കുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലൊരു ഗ്രാഫ് ഉണ്ട് നമുക്ക് a b c എന്നിവയുടെ ഗുണങ്ങളുണ്ട് അവയുടെ പ്രദേശങ്ങളും അവയുടെ സ്വത്തുക്കളും അവ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതുമാണ് അതിനാൽ നിങ്ങൾക്ക് ഇതര ഫ്ലോർ പ്ലാനുകൾ പര്യവേക്ഷണം ചെയ്യാനും ഈ 3 ൽ ഏതാണ് മികച്ചതെന്ന് കണ്ടെത്താനും കഴിയും അവസാനത്തേത് മികച്ചതാണെന്ന് നിങ്ങൾ കണ്ടെത്തിയെന്ന് കരുതുക അതിനാൽ നിങ്ങൾ ഇത് മരവിപ്പിക്കുകയും നിങ്ങൾ ഇത് a b c സിംഗിൾ മൈക്രോ നോഡിലേക്ക് ലയിപ്പിക്കുകയും ചെയ്യുന്നു അതായത് നിങ്ങൾ ഇതിനകം തന്നെ ഈ ഉപ പ്രശ്നം പരിഹരിച്ചു a b c മികച്ച രീതിയിൽ ഈ രീതിയിൽ ക്രമീകരിക്കാം മറ്റ് രണ്ടെണ്ണം നിങ്ങൾ അവഗണിക്കുന്നു ഇതാണ് അടിസ്ഥാന ആശയം അതിനാൽ ഒപ്റ്റിമൽ കോൺഫിഗറേഷനുശേഷം ഞാൻ പറഞ്ഞതുപോലെ 3 മൊഡ്യൂളുകൾ നിർണ്ണയിക്കപ്പെടുന്നു നിങ്ങൾ അവയെ ഒരൊറ്റ മൊഡ്യൂളിലേക്ക് ലയിപ്പിക്കുന്നു അതിനാൽ സൂപ്പർ വെർട്ടെക്സ് എന്ന് വിളിക്കപ്പെടുന്ന സിംഗിൾ അടുത്ത ഉയർന്ന തലത്തിലായിരിക്കും നിങ്ങൾ ഇത് ആവർത്തിക്കുന്നത് തുടരുക എന്നാൽ ഇവിടെ പ്രശ്നം ഞാൻ പറഞ്ഞതുപോലെ ഓരോ ഘട്ടത്തിലും നിങ്ങൾ ചെറിയ എണ്ണം ശീർഷകങ്ങൾ പരിഗണിക്കുന്നു പക്ഷേ എത്ര ചെറുതാണ് 3 4 5 6 അത്തരം സാധ്യതകളുടെ എണ്ണം ശീർഷങ്ങളുടെ എണ്ണത്തിൽ വളരെ വേഗത്തിൽ വർദ്ധിക്കുന്നതായി കാണാം അതിനാൽ സാധാരണയായി നമ്മൾ നോഡുകളുടെ എണ്ണം 5 ആയി പരിമിതപ്പെടുത്തുന്നു അതിനേക്കാൾ കൂടുതലല്ല സാധ്യമായ ഫ്ലോർ പ്ലാനുകളുടെ എണ്ണം d ഉപയോഗിച്ച് ക്രമാതീതമായി വർദ്ധിക്കുന്നു d എന്നത് ഗ്രാഫിലെ ശീർഷങ്ങളുടെ എണ്ണമാണ് അതിനാൽ d 2 ന് തുല്യമായ ഒരു ഉദാഹരണം ഇവയാണ് 2 സാധ്യതകൾ d ന് തുല്യമായ 3 ന് നിങ്ങൾക്ക് 6 സാധ്യതകൾ ഉണ്ടാകും അങ്ങനെ d 4 അല്ലെങ്കിൽ 5 ലേക്ക് നീങ്ങുമ്പോൾ ഇത് വളരെ വേഗത്തിൽ പോകുന്നു നിങ്ങൾക്ക് ആ വലുപ്പത്തിലുള്ള ഒരു ഗ്രാഫ് ഉണ്ടെങ്കിൽ നിങ്ങൾ കണ്ടെത്താനും എല്ലാ സാധ്യതകളും പര്യവേക്ഷണം ചെയ്യാനും കണ്ടെത്താനും ശ്രമിക്കുക ഫ്ലോർ പ്ലാനിന്റെ ഒപ്റ്റിമൽ കോൺഫിഗറേഷൻ എടുക്കുക അത് ഫ്രീസുചെയ്ത് അടുത്ത തലത്തിലേക്ക് വലതുവശത്തേക്ക് എല്ലാ വെർടിസെസിനെയും ഒരൊറ്റ സൂപ്പർ വെർട്ടെക്സിൽ ലയിപ്പിക്കുക അതിനാൽ ഈ ഹൈറാർക്കിക്കൽ മെത്തേഡിലെ സ്വാഭാവിക സമീപനമാണ് താഴെ അതിനാൽ നമ്മൾ ഗ്രാഫിലെ ശീർഷങ്ങളായി പ്രതിനിധീകരിക്കുന്ന മൊഡ്യൂളുകൾ അറ്റങ്ങൾ കണക്റ്റിവിറ്റി എഡ്ജ് വെയിറ്റ് എന്നിവ സൂചിപ്പിക്കും അതിനാൽ ഉയർന്ന ഭാരം ഉള്ള മൊഡ്യൂളുകൾ ജോഡി മൊഡ്യൂളുകൾ ഓരോ ക്ലസ്റ്ററിലെയും മൊഡ്യൂളുകളുടെ എണ്ണം d ആയി പരിമിതപ്പെടുത്തും എന്ന നിയന്ത്രണത്തോടെ അവ ഒരുമിച്ച് ക്ലസ്റ്റർ ചെയ്യപ്പെടും ഈ d ഇതാണ് നമ്മുടെ പരിധി ആശയം ഇതാണ് നമുക്ക് ഗ്രാഫ് ഉണ്ട് ഓരോ ശീർഷകവും നമ്മുടെ ബ്ലോക്കുകൾ അരികുകൾ അരികുകളുടെ ഭാരം എന്നിവ ബ്ലോക്കുകൾക്കിടയിൽ എത്ര കണക്ഷനുകൾ ഉണ്ടെന്ന് സൂചിപ്പിക്കുന്നു ശക്തമായി ബന്ധിപ്പിച്ചിട്ടുള്ള d അത്തരം നോഡുകളുടെ ഒരു കൂട്ടം ഞാൻ തിരഞ്ഞെടുത്തുവെന്ന് കരുതുക നിങ്ങൾ ആ നോഡുകൾ എടുക്കുക അവ ഒപ്റ്റിമൽ ആയി സ്ഥാപിക്കുക കാരണം നിങ്ങൾക്ക് എല്ലാ സാധ്യതകളും അറിയാം എല്ലാ സാധ്യതകളും പര്യവേക്ഷണം ചെയ്യുക ഏത് ഫ്ലോർ പ്ലാൻ കോൺഫിഗറേഷൻ നിങ്ങൾക്ക് കുറഞ്ഞ ചിലവ് നൽകുന്നുവെന്ന് കണ്ടെത്തുക അത് എടുക്കുക ആ അഞ്ച് നോഡുകളെ ഒരൊറ്റ മൈക്രോ നോഡ് ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കുക അങ്ങനെ ആ സംഖ്യ d ന് തുല്യമായി പരിമിതപ്പെടുത്തുക അതിനാൽ ഓരോ ഘട്ടത്തിലും സമഗ്രമായ കണക്കെടുപ്പ് നടത്തുന്നു ഉയർന്ന തലത്തിലുള്ള പ്രോസസ്സിംഗിനായി ഈ ക്ലസ്റ്റർ ഒരു വലിയ മൊഡ്യൂളിലേക്ക് ലയിപ്പിക്കുന്നു ഇപ്പോൾ ഇത് തീർച്ചയായും ഗ്രീഡി പ്രോസിജ്യുവർ ആണ് അവിടെ നിങ്ങൾ അരികുകൾ വൈറ്റിംഗിന്റെ ഡെക്രീസിങ് ഓർഡറിൽ അടുക്കുന്നു സാധാരണയായി ഏറ്റവും ശക്തമായ കണക്റ്റിവിറ്റിയെ സൂചിപ്പിക്കുന്ന ഏറ്റവും വലിയ ഭാരം ആദ്യം തിരഞ്ഞെടുക്കുകയും മൊഡ്യൂളുകൾ ഗ്രീഡി ഫാഷനിൽ ക്ലസ്റ്റർ ചെയ്യുകയും ചെയ്യുന്നു ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ആവർത്തിക്കപ്പെടുന്നു ഞാൻ ആവർത്തിക്കും ഒരു ഉദാഹരണത്തിലൂടെ ഇത് കാണിക്കാം ഞാൻ ഇതിലേക്ക് മടങ്ങിവരുന്നു നമുക്ക് ആദ്യം ഈ ഉദാഹരണം എടുക്കാം ഇത് 5 ശീർഷങ്ങളുള്ള ഒരു ഗ്രാഫ് ആണ് അരികുകളുടെ ഭാരം കാണിച്ചിരിക്കുന്നു അതിനാൽ ഗ്രീഡി ക്ലസ്റ്ററിംഗ് സമീപനത്തിൽ ശക്തമായതും എ ബി സി ഡി എന്നിവയുമായി ഏറ്റവും ശക്തമായി ബന്ധിപ്പിച്ചിട്ടുള്ളതും നിങ്ങൾ അവയെ ഒരുമിച്ച് ലയിപ്പിക്കുകയും എ ബി എന്നിവ കൂട്ടിച്ചേർക്കുകയും സി ഡി എന്നിവ കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നു അതിനാൽ നിങ്ങൾ ഒരിക്കൽ ചെയ്തുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇ മാത്രം അവശേഷിക്കുന്നു അതിനാൽ ഈ ക്ലസ്റ്ററുകളുമായി താരതമ്യേന 2 1 എന്നിവ വീക്കിലി ബന്ധിപ്പിച്ചിരിക്കുന്നു ഇപ്പോൾ സംഭവിക്കുന്നത് ഇതാണ് എ ബി ഒരുമിച്ച് കണക്റ്റുചെയ്യുന്നു സി ഡി ഒരുമിച്ച് ബന്ധിപ്പിക്കുന്നു പക്ഷേ നിങ്ങൾക്ക് ഇ സ്ഥാപിക്കാൻ എവിടെയും ഇല്ല അതിനാൽ ഈ ഗ്രീഡി ക്ലസ്റ്ററിംഗിൽ ഒരുപക്ഷേ നിങ്ങൾ വലതുവശത്തായിരിക്കും അതിനാൽ നിങ്ങൾക്ക് മുകളിലും താഴെയുമായി ധാരാളം ശൂന്യമായ ഇടങ്ങൾ ലഭിക്കും അതിനാൽ ഇത് ഒരു നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള ഒരു ഹ്യൂറിസ്റ്റിക് പ്രശ്നമാണ് ശ്രേണിയിലെ ഉയർന്ന തലങ്ങളിൽ ചില ഭാരം കുറഞ്ഞ അരികുകൾ തിരഞ്ഞെടുക്കപ്പെടാം ഫലമായി നിങ്ങൾ ഇവിടെ കാണുന്നത് പോലെ ലേ ഔട്ട് ഏരിയയിൽ വർദ്ധനവിന് കാരണമായേക്കാവുന്ന രണ്ട് ക്ലസ്റ്ററുകളുടെ പൊരുത്തമില്ലാത്ത പ്രദേശങ്ങൾ ഈ e ഈ b c d എന്നിവ ഉയരത്തിന്റെ കാര്യത്തിൽ നന്നായി പൊരുത്തപ്പെടുന്നു അതിനാൽ നിങ്ങൾക്ക് എവിടെയും താഴേക്ക് വയ്ക്കാൻ കഴിയില്ല അതിനാൽ നിങ്ങൾ അത് വലതുവശത്ത് സ്ഥാപിക്കണം അതിനാൽ ഇത് സംഭവിക്കുന്നു ഇപ്പോൾ ഈ ഹ്യൂറിസ്റ്റിക് പറയുന്നു ഒരു ക്ലസ്റ്റർ അയൽ ക്ലസ്റ്ററുമായി വളരെ ചെറിയ ഭാരവുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾ അവയെ ഒരുമിച്ച് ക്ലബാക്കുക തുടക്കത്തിൽ ഇത് ഒരു ഹ്യൂറിസ്റ്റിക് മാത്രമാണ് ആശയം d യും e യും ഒരു ഭാരവുമായി വീക്ക്ലി ബന്ധപ്പെട്ടിരിക്കുന്നു നിങ്ങൾ തുടക്കത്തിൽത്തന്നെ ഡി ഇ എന്നിവ ഒരുമിച്ച് ക്ലബ് ചെയ്യുന്നു എന്നതാണ് അതിനാൽ d യും e യും ഒരുമിച്ച് നിൽക്കും ഇപ്പോൾ ബാക്കിയുള്ളവ a യും b യും ഒരുമിച്ച് c യും d യും ഒരുമിച്ച് ഉപയോഗിക്കുക അതിനാൽ നമുക്ക് ലഭിക്കുന്ന പരിഹാരം കൂടുതൽ ഒതുക്കമുള്ളതായി ഇവിടെ നിങ്ങൾ കാണും കാരണം ഡി ഇ അവർ ഒന്നിച്ചിരിക്കുന്നതിനാൽ നിങ്ങൾക്ക് അത് സി ക്ക് താഴെ വയ്ക്കാം എന്നാൽ ഇവിടെ c യും d യും കൂടിച്ചേരുന്നതിനാൽ d എന്നത് അതിന്റെ താഴെയായി c യുടെ മധ്യഭാഗത്ത് സ്ഥാപിക്കും അതിനാൽ വലത്തോട്ടോ ഇടത്തോട്ടോ ഇ സൂക്ഷിക്കാൻ നിങ്ങൾക്ക് മതിയായ ഇടമില്ല പക്ഷേ ഇവിടെ അത് സംഭവിക്കുന്നു അതിനാൽ ഇത് ന്യായമായ നല്ല പരിഹാരം നൽകുന്ന ഒരു ഹ്യൂറിസ്റ്റിക് മാത്രമാണ് ഇപ്പോൾ മുകളിൽ നിന്ന് താഴേക്ക് മറ്റൊരു ബദലാണ് അതിനാൽ ഇവിടെ നിങ്ങൾ വിഭജന പ്രക്രിയയിൽ നിന്ന് ആരംഭിക്കുക അതിനാൽ നിങ്ങൾ മുഴുവൻ നെറ്റ്ലിസ്റ്റിൽ നിന്നും ആരംഭിക്കുക അതിനാൽ ആശയം ഇതാണ് അതിനാൽ നിങ്ങളുടെ സമ്പൂർണ്ണ ഫ്ലോർ പ്ലാനുമായി ബന്ധപ്പെട്ട മുഴുവൻ നെറ്റ്ലിസ്റ്റും നിങ്ങളുടെ പക്കലുണ്ട് നിങ്ങൾ ഈ നെറ്റ്ലിസ്റ്റിനെ രണ്ട് ഭാഗങ്ങളായി വിഭജിക്കുന്നു ഫ്ലോർ പ്ലാനിൽ ഇത് രണ്ട് ഭാഗങ്ങളുമായി യോജിക്കുന്നു നിങ്ങൾ ഇത് 3 ഭാഗങ്ങളായി വിഭജിക്കുക ഇവിടെ തന്നെ നിങ്ങൾ ഫ്ലോർ പ്ലാൻ 3 ഭാഗങ്ങളായി വിഭജിക്കുന്നു ഇവിടെ നിങ്ങൾ ഇത് 2 ഭാഗങ്ങളായി വിഭജിക്കുന്നു ഇവിടെ നിങ്ങൾ 2 ഭാഗങ്ങളായി വിഭജിക്കുന്നു അതിനാൽ വൺ ടു വൺ കറസ്പോണ്ടൻസ് ആണ് മുകളിൽ നിന്ന് നിങ്ങൾ നെറ്റ്ലിസ്റ്റ് വിഭജിക്കുന്നു അതേ സമയം നിങ്ങൾ അനുയോജ്യമായ രീതിയിൽ ഫ്ലോർ പ്ലാനും വിഭജിക്കുന്നു അതിനാൽ നിങ്ങൾക്ക് ലഭിക്കും ഇവ ഒരു ബി സി ഡിയും ഇയുമാണെന്ന് പറയട്ടെ അതിനാൽ ഫ്ലോർ പ്ലാനിൽ നിങ്ങൾ അവ കൃത്യമായി സ്ഥാപിക്കുന്ന സ്ഥലം നിങ്ങൾക്ക് കൃത്യമായി ലഭിക്കും അതിനാൽ ഇതാണ് ടോപ്പ് ഡൌൺ അപ്പ്രോച്ച് എന്നാൽ പ്രധാന പ്രശ്നം ഒരു ഗ്രാഫിനെ രണ്ട് ഭാഗങ്ങളായി വിഭജിക്കുന്ന കർണിഗൻ ലിൻ പാർട്ടീഷനിംഗ് അൽഗോരിതം നമ്മൾ കണ്ടിട്ടുണ്ട് എന്നതാണ് എന്നാൽ ഇവിടെ പൊതുവെ നമുക്ക് ഒരു ഗ്രാഫ് രണ്ട് ഭാഗങ്ങളിൽ കൂടുതൽ വിഭജിക്കാൻ കഴിയുന്ന ഒരു രീതി ആവശ്യമാണ് എന്നാൽ അത്തരം നല്ല അൽഗോരിതങ്ങൾ സാധാരണയായി ലഭ്യമല്ല നമ്മൾ ഹ്യൂറിസ്റ്റിക്സും ഏകദേശ രീതികളും ഉപയോഗിക്കേണ്ടതുണ്ട് അതിനാൽ കെ വേ പാർട്ടീഷനിംഗ് എന്ന് വിളിക്കുന്നു അതിനാൽ കെ വേ പാർട്ടീഷനിംഗിനായി അൽഗോരിതങ്ങൾ ഉണ്ട് അവ ഇവിടെ ഉപയോഗിക്കാനാകും ഇത് ഒരു നെറ്റ്ലിസ്റ്റിനെ കെ വ്യത്യസ്ത ഭാഗങ്ങളായി വിഭജിക്കുന്നു നല്ല പരിഹാരം ലഭിക്കുന്നതിന് വീണ്ടും കംപ്യുറ്റേഷൻ കോംപ്ലക്സിറ്റി വളരെ ഉയർന്നതാണ് അതിനാൽ ഇത് ഒരു പ്രശ്നമാണ് അതിനാൽ ഇത് വളരെ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നില്ല ബാലൻസ്ഡ് പാർട്ടീഷനുകൾ ലഭിക്കുന്നത് ബുദ്ധിമുട്ടാണ് ബാലൻസ്ഡ് എന്നതിന്റെ അർത്ഥം തുല്യ വലുപ്പത്തിലുള്ള പാർട്ടീഷനുകൾ അതിനാൽ ശരിയാക്കാൻ ബുദ്ധിമുട്ടാണ് സിമുലേറ്റഡ് അനിയലിംഗ് ഒരു രസകരമായ രീതിയാണ് അതിനാൽ VLSI CAD ൽ ഉപയോഗിക്കുന്ന വളരെ സാധാരണയായി ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് സിമുലേറ്റഡ് അനിയലിംഗ് മറ്റ് ആപ്ലിക്കേഷനുകളിലും ഇത് ലോഹങ്ങളുടെ അനിയലിംഗ് പ്രക്രിയയെ മാതൃകയാക്കുന്നു അതിനാൽ ഇത് അടിസ്ഥാനപരമായി ഒരു ഒപ്റ്റിമൈസേഷൻ പ്രശ്നമാണ് ഒരു ഒപ്റ്റിമൈസേഷൻ പ്രശ്നത്തിനുള്ള ഒരു പരിഹാരമാണ് നിങ്ങൾക്ക് എവിടെയാണ് ഒരു പരിഹാരം ആരംഭിക്കുന്നത് ഒരു പരിഹാരത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു കൂട്ടം നീക്കങ്ങൾ നമ്മുടെ പക്കലുണ്ട് നിങ്ങൾക്ക് വിലയിരുത്താൻ കഴിയുന്ന പ്രവർത്തനം ഇതിനർത്ഥം തന്നിരിക്കുന്ന പ്രശ്നത്തിന് എനിക്ക് എന്റെ പരിഹാരമുണ്ട് അതിനർത്ഥം നമുക്ക് ഒരു പരിഹാര പ്രാതിനിധ്യം ഉണ്ടെന്നാണ് ഇതൊരു ആവർത്തന പ്രക്രിയയാണ് ഓരോ ഘട്ടത്തിലും നമ്മൾ പരിഹാരത്തിൽ ചില ചെറിയ മാറ്റങ്ങൾ വരുത്തുന്നു ഇവയെ മൂവ്സ് എന്ന് വിളിക്കുന്നു മാറ്റം വരുത്തിയതിനുശേഷം നമുക്ക് ഒരു മികച്ച പരിഹാരം ലഭിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ പരിശോധിക്കുന്നു നമുക്ക് ഒരു മികച്ച പരിഹാരം ലഭിക്കുകയാണെങ്കിൽ ഒരു കോസ്ററ് ഫങ്ക്ഷൻ ഉണ്ട് അത് ഉപയോഗിച്ച് നമുക്ക് ഒരു മികച്ച പരിഹാരം ലഭിക്കുകയാണെങ്കിൽ നമ്മൾ എല്ലായ്പ്പോഴും അത് സ്വീകരിക്കും എന്നാൽ നിങ്ങൾക്ക് ഏറ്റവും മോശം പരിഹാരം ലഭിക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ അത് അംഗീകരിച്ചേക്കാം ഇതിനെ അനിയലിംഗ് പ്രോസസ്സ് അല്ലെങ്കിൽ മെറ്റലിലെ കൂളിംഗ് പ്രോസസ്സ് എന്ന് വിളിക്കുന്നു അതിനാൽ സിമുലേഷൻ അനുകരിച്ച അനിയലിംഗ് അൽഗോരിതം അടിസ്ഥാനമാക്കിയുള്ള ആശയം ഇതാണ് അതിനാൽ ഫ്ലോർ പ്ലാനിംഗിനായുള്ള ഈ രീതിയിൽ ഫ്ലോർ പ്ലാൻ പ്രതിനിധീകരിക്കുന്നത് ഒരു ട്രീ ആണ് പോസ്റ്റ്ഫിക്സ് നൊട്ടേഷനെക്കുറിച്ച് ഞാൻ നേരത്തെ സംസാരിച്ച പോളിഷ് നൊട്ടേഷൻ അതേ തരത്തിലുള്ള പോസ്റ്റ്ഫിക്സ് നൊട്ടേഷൻ പ്രതിനിധീകരിക്കുന്നതിനും നീക്കങ്ങളുടെ മാനിപുലേഷനും ഉപയോഗിക്കുന്നു അതിനാൽ എങ്ങനെയെന്ന് നോക്കാം അതിനാൽ നിങ്ങളുടെ സൌകര്യാർത്ഥം ഞാൻ ഈ നൊട്ടേഷൻ ആവർത്തിക്കുന്നു ഈ i j രണ്ട് ബ്ലോക്കുകൾ സൂചിപ്പിക്കുന്നു ijH എന്നാൽ ഇതുപോലുള്ള ഒന്ന് എന്നാണ് അർത്ഥമാക്കുന്നത് ഈ i j എന്നിവ ഒരു ഹൊറിസോണ്ടൽ ലൈനിലൂടെ ബന്ധിപ്പിച്ചിരിക്കുന്നു i j ഇത് ijH കൊണ്ട് സൂചിപ്പിക്കും അതുപോലെ ijV ഇതിനർത്ഥം റെക്ടാങ്കിൾ j എന്നത് റെക്ടാങ്കിൾ i യുടെ ഇടതുവശത്താണ് ഞാൻ ijV എന്ന് എഴുതുകയാണെങ്കിൽ ഇത് I ന്റെ ഇടതുവശത്ത് വെർട്ടിക്കൽ ലൈനാൽ വേർതിരിച്ച j എന്നതുമായി യോജിക്കും അതിനാൽ അത്തരം ഓരോ സ്ലൈസും പോളിഷ് അല്ലെങ്കിൽ ഇതുപോലുള്ള പോസ്റ്റ്ഫിക്സ് നൊട്ടേഷനെ പ്രതിനിധീകരിക്കുന്നു ഇപ്പോൾ ഒരു സാധാരണ പോളിഷ് പദപ്രയോഗം നിർവ്വചിക്കുക അതിൽ തുടർച്ചയായ H അല്ലെങ്കിൽ V ചിഹ്നങ്ങൾ അടങ്ങിയിട്ടില്ലെങ്കിൽ പോളിഷ് എക്സ്പ്രഷനെ നോർമലൈസ്ഡ് എന്ന് വിളിക്കുന്നു ഇത് കുറച്ചുമാത്രം റിഡൻഡൻസി കുറയ്ക്കുന്നതിന് ഉപയോഗിക്കുന്നു കാരണം നിങ്ങൾ മുമ്പ് കണ്ടതുപോലെ ഒരേ ഫ്ലോർ പ്ലാനിൽ ഒന്നിലധികം സ്ലൈസിംഗ് ട്രീസ് ഉണ്ടാകാം അല്ലെങ്കിൽ അവയ്ക്ക് ഒന്നിലധികം പോളിഷ് നൊട്ടേഷനുകൾ ഉണ്ടാകും അതിനാൽ ഇത് സാധാരണ നിലയിലാക്കാനുള്ള ഒരു മാർഗമാണിത് നമുക്ക് ഒരു ഉദാഹരണം എടുക്കാം ഇത് ഒരു ഫ്ലോർ പ്ലാൻ ആണ് രണ്ട് ഇതര സ്ലൈസിങ് ട്രീസ് ഉണ്ട് നിങ്ങൾക്ക് കാണാം ഒന്നുകിൽ 1 ഉം 2 ഉം പിന്നെ 3 ഉം 4 ഉം ആദ്യം ലയിപ്പിക്കാം എന്നിട്ട് അവ ഒന്നിപ്പിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് 1 ഉം 2 ഉം ആദ്യം ലയിപ്പിക്കാം നിങ്ങൾ അതുമായി 3 കൂട്ടിച്ചേർക്കുക അതിനുശേഷം 4 കൂട്ടിച്ചേർക്കുക അതിനാൽ അനുബന്ധ പോളിഷ് നൊട്ടേഷനുകൾ ഇതുപോലെ കാണപ്പെടും 1 2 H അതായത് ഡാഷ് 3 4 V അതായത് ബാർ ഈ ബാർ ഈ ബാർ ഇത് കൂടാതെ ഈ 1 2 ഡാഷ് 3 ബാർ 4 ബാർ എന്നിവയ്ക്ക് സമാനമാണ് നിങ്ങൾക്ക് ഇവിടെ കാണാം വെർട്ടിക്കൽ നോട്ടഷനുകൾ കോൺസെക്യൂട്ടീവ് ആണ് എന്നാൽ ഇവിടെ അങ്ങനെയൊന്നുമില്ല ഇത് നോർമലൈസ്ഡ് ആയി കണക്കാക്കും അതിനാൽ പ്രാതിനിധ്യത്തിനായി നമ്മൾ നോർമലൈസ്ഡ് എക്സ്പ്രെഷൻ മാത്രമേ ഉപയോഗിക്കൂ ഇതാണ് നമ്മൾ ചെയ്യുന്നത് തുടർന്ന് ഞാൻ സംസാരിച്ച നീക്കങ്ങളെക്കുറിച്ച് ചില പരാമീറ്ററുകൾ അതിനാൽ 3 നീക്കങ്ങൾ ഇവിടെ നിർവ്വചിച്ചിരിക്കുന്നു ആദ്യ നീക്കം നിങ്ങൾ രണ്ട് അടുത്തുള്ള ഓപ്പറാൻഡുകൾ സ്വാപ്പ് ചെയ്യുന്നുവെന്ന് പറയുന്നു രണ്ട് നീക്കുക രണ്ട് ഓപ്പറാൻഡുകൾക്കിടയിലുള്ള ഒരു ഓപ്പറേറ്റർ പരമ്പരയെ നിങ്ങൾ പൂർത്തീകരിക്കുന്നുവെന്ന് പറയുന്നു ഇതിനെ ഒരു ചെയിൻ എന്ന് വിളിക്കുന്നു കോംപ്ലിമെന്റ് എന്നാൽ വി ആണെങ്കിൽ നിങ്ങൾ അത് H ആക്കും H ആണെങ്കിൽ V ആക്കും അതിനാൽ രണ്ട് ഓപ്പറാൻഡുകൾക്കിടയിലുള്ള ഒരു ഓപ്പറേറ്റർ പരമ്പരയെ പൂരിപ്പിക്കുക എനിക്ക് എന്തെങ്കിലും ഉണ്ടെന്ന് കരുതുക എനിക്ക് ഒരു ബ്ലോക്ക് ഉണ്ട് എനിക്ക് ഒരു ബ്ലോക്ക് ഉണ്ട് ആ വാക്കുകൾക്കിടയിൽ എനിക്ക് ഡാഷ് ബാർ ഡാഷ് എന്ന് പറയട്ടെ അതിനാൽ ഇത് നിങ്ങൾ ബാർ ഡാഷ് ബാർ എന്നിവ ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കുന്നു അവ ഓരോന്നും പൂരിപ്പിക്കുന്നു ഇതിനെ ഒരു ചെയിൻ എന്ന് വിളിക്കുന്നു മൂന്നാമത്തെ നീക്കം പറയുന്നത് രണ്ട് അടുത്തുള്ള ഓപ്പറേറ്റർമാരെയും ഓപ്പറാൻഡുകളെയും സ്വാപ്പ് ചെയ്യുക എന്നാണ് അതിനാൽ നിങ്ങൾക്ക് ഒരു ഡാഷ് ഉണ്ടെങ്കിൽ അത് മാറ്റി പകരം വയ്ക്കുക ആദ്യത്തേത് തീർച്ചയായും അടുത്തുള്ള ഓപ്പറാൻഡിലേക്ക് സ്വാപ്പ് ചെയ്യുക അത് അർത്ഥമാക്കുന്നത് അത് എബി ആണെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ ഒരു നീക്കം നടത്തിയ ശേഷം അത് സാധാരണ രീതിയിലുള്ള ആവിഷ്കാരത്തിന് കാരണമായാൽ മാത്രമേ നമ്മൾ അത് പരിഗണിക്കുകയുള്ളൂ കാരണം നിങ്ങൾക്ക് a b നീക്കങ്ങൾ പരിശോധിക്കാൻ കഴിയും ഒന്ന് മാത്രം ഒരു സാധാരണ പദപ്രയോഗം നോർമലൈസ് ചെയ്യപ്പെടാത്ത ഒരു കേസിൽ സി നീക്കത്തിന് മാത്രമേ കാരണമാകുകയുള്ളൂ നിങ്ങൾക്ക് അത് ഒരു ഡാഷ് ആയിരുന്നു ഡാഷ് എന്ന് പറയട്ടെ അങ്ങനെയാണെങ്കില് നിങ്ങൾ ഇവ രണ്ടും മാറ്റിവയ്ക്കുക ഇത് ഡാഷ് ഡാഷ് ആയി മാറിയേക്കാം അതിനാൽ നിങ്ങൾക്ക് തുടർച്ചയായി രണ്ട് ഡാഷുകൾ ലഭിച്ചേക്കാം ഇത് നോൺ നോർമലൈസ്ഡ് ഫൈൻ ആയി മാറിയേക്കാം അതിനാൽ കോസ്റ്റ് ഫംഗ്ഷൻ വീണ്ടും വളരെ സമാനമായിരിക്കും നിങ്ങൾക്ക് ഏരിയ ഉണ്ട് വയർ നീളം ഉണ്ട് പിന്നെ ചില വെയ്റ്റഡ് ഫംഗ്ഷൻ ഇത് ഞാൻ നേരത്തെ ചർച്ച ചെയ്തിട്ടുണ്ട് അതേ തരത്തിലുള്ള കോസ്റ്റ് ഫംഗ്ഷൻ നിങ്ങൾക്ക് ഉപയോഗിക്കാം കൂടാതെ ഇത് ഒരു ഉദാഹരണം മാത്രമാണ് നിങ്ങൾ ആരംഭിക്കുന്നിടത്ത് നിന്നുള്ള ഒരു പ്രാരംഭ പരിഹാരമായിരുന്നു ഇതെന്ന് പറയട്ടെ ഇതാണ് അനുബന്ധ പോളിഷ് നൊട്ടേഷൻ അതിനാൽ സാധ്യമായ നീക്കങ്ങളുടെ ഒരു ശ്രേണി ഞാൻ ചിത്രീകരിക്കുന്നു നിങ്ങൾ നീക്കങ്ങൾ നടത്തുന്നു അതിനർത്ഥം നിങ്ങൾ രണ്ട് ഓപ്പറേറ്റുകൾ മാറ്റുന്നു എന്നാണ് ഇത് 4 ഉം 3 ഉം നിങ്ങൾ ഇത് 3 ഉം 4 ഉം ആക്കുന്നു 3 ഇവിടെ വരും 4 അവിടെ വരും അതിനാൽ നമുക്ക് ഇതുപോലൊരു പരിഹാരം ലഭിക്കും B നീക്കുക അതിനാൽ 2 നും 3 നും ഇടയിൽ നിങ്ങൾ എല്ലാം പൂരിപ്പിക്കുന്നു ഒന്ന് മാത്രമേയുള്ളൂ നിങ്ങൾ അത് ഡാഷിലേക്ക് പൂരിപ്പിക്കുന്നു അതിനാൽ പുതിയ ലേ ഔട്ട് ഇതുപോലെ കാണപ്പെടുന്നു സി നീക്കുക ഞാൻ എന്തുചെയ്യും ഈ 4 ഉം ഈ ഡാഷും നിങ്ങൾ അവരെ മാറ്റുന്നു ഇത് ഇതാണ് ഈ ഉദാഹരണം കാണുക ചില നീക്കങ്ങളുടെ ക്രമം വളരെ നല്ല അന്തിമ പരിഹാരത്തിന് കാരണമാകുമെന്ന് കാണിക്കാൻ ഞാൻ മനപ്പൂർവ്വം നിർമ്മിച്ചതാണ് പക്ഷേ പ്രായോഗികമായി നിങ്ങൾ അത്തരം ആവർത്തനങ്ങളും ധാരാളം ട്രയലുകളും പിശകുകളും ചെയ്യേണ്ടിവരും അവസാനം നിങ്ങൾ ഒരു നല്ല പരിഹാരത്തിൽ എത്തിച്ചേരാം പക്ഷേ ഈ ഉദാഹരണം യഥാർത്ഥത്തിൽ ഒരു ശ്രേണി കണ്ടെത്താനാകുമെന്ന് കാണിക്കുന്നു ഒരു മോശം പരിഹാരത്തിൽ നിന്ന് നിങ്ങൾക്ക് ഒരു നല്ല പരിഹാരത്തിലേക്ക് പോകാൻ കഴിയുന്ന നീക്കങ്ങൾ അവസാനമായി റെക്ടാങ്കുലറും എൽ ആകൃതിയിലുള്ളതുമായ ബ്ലോക്കുകളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം ബ്ലോക്ക് ആകൃതി റെക്ടാങ്കുലർ മാത്രമല്ല എൽ ആകൃതിയിലുള്ളതും ആകാം എന്നാൽ നിങ്ങൾ റെക്ടാങ്കുലർ ബ്ലോക്കുകളിൽ മാത്രമായി പരിമിതപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽപ്പോലും നിങ്ങൾ ബ്ലോക്കുകൾ അടുത്തടുത്തായി സ്ഥാപിക്കുമ്പോഴെല്ലാം ഇത് L ന്റെ ആകൃതി എടുക്കാം കൂടാതെ നിങ്ങൾ ബ്ലോക്കുകൾ ഒന്നിനുപുറകെ ഒന്നായി ക്രമീകരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു സാഹചര്യത്തിലേക്ക് നയിക്കാനാകും I ഇത് ഇവിടെ കാണിച്ചിരിക്കുന്നു അവിടെ നിങ്ങൾക്ക് നോൺ സ്ലൈസബിൾ ആയ വീൽ പോലുള്ള സ്ട്രക്ച്ചർ ലഭിക്കും അതിനാൽ ഓരോ ബ്ലോക്കുകളും ഒന്നിനുപുറകെ ഒന്നായി നീങ്ങുമ്പോൾ ദീർഘചതുരമാണെങ്കിലും നിങ്ങൾ ബന്ധിപ്പിക്കുന്നത് തുടരുക അവസാനം നിങ്ങൾക്ക് ഒരു വീൽ പോലുള്ള ഘടന ലഭിക്കും അതിനാൽ ക്രിയാത്മകമായ ചതുരാകൃതിയിലുള്ള ഫ്ലോർ പ്ലാനുകൾ സൃഷ്ടിക്കുമ്പോൾ നിങ്ങൾ പരിഗണിക്കേണ്ട ചില സങ്കീർണതകൾ ഇവയാണ് അതിനാൽ സാധ്യമായ ഫ്ലോർ പ്ലാനിംഗ് അൽഗോരിതങ്ങളെക്കുറിച്ചുള്ള ഒരു അവലോകനം നൽകാൻ ഞാൻ ശ്രമിച്ചു അവയുടെ വിശദാംശങ്ങളിലേക്ക് പോകാൻ ശ്രമിക്കാതെ അതിനാൽ പിന്തുടരുന്ന സമീപനങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ന്യായമായ ഒരു ആശയം ഉണ്ടായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു